ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇത് അമ്പത്തിരണ്ടാം നമ്പർ ലക്ച്ചർ ആണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കും പ്രധാനമായും നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെയും അവയുടെ സൊലൂഷൻ കണ്ടെത്തുന്ന രീതികളുമാണ് പരിഗണിക്കുന്നത് അതിനാൽ ഇന്ന് നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡ് ഫോമുകളിൽ ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിലൊന്ന് എന്ന ഫോം നമ്മൾ പരിഗണിക്കും ഇതിൽ വലതുവശത്ത് എന്നിവയുടെ ഒരു ഫങ്ക്ഷൻ ആയിരിക്കും മറ്റൊന്ന് എന്ന ഫോമിലുള്ള സമവാക്യങ്ങൾ ആയിരിക്കും ഈ ലക്ച്ചറിൽ നമ്മൾ പരിഗണിക്കുന്നത് ഇതിലും അടുത്ത കുറച്ച് ലക്ച്ചറിലും ഈ രണ്ട് തരം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത് സൊല്യൂഷൻ കാണുന്നതിനുള്ള മാർഗ്ഗങ്ങളിൽ ആദ്യത്തേത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സൊലൂഷൻ കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായ വളരെ അടിസ്ഥാനപരമായ ചില മാർഗ്ഗങ്ങൾ നമ്മൾ വേഗത്തിൽ അവലോകനം ചെയ്യും അവയിലൊന്ന് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ് എന്ന ഈ രൂപത്തിൽ ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എഴുതാൻ കഴിയുമെങ്കിൽ ഇവിടെ യുടെ എല്ലാ ഫംഗ്ഷനുകളും ഒരു വശത്തേക്കും മറുവശത്ത് ന്റെ എല്ലാ ഫംഗ്ഷനുകളെയും ഒരുമിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ സമവാക്യത്തെ നമ്മൾ വേരിയബിൾ സെപറബിൾ സമവാക്യം എന്നു വിളിക്കുന്നു ഈ സമവാക്യത്തെ നമുക്ക് എളുപ്പത്തിൽ ഇൻറെഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം ഇടതുവശത്ത് യുടെ മാത്രം ഫംഗ്ഷനും വലതുവശത്തുള്ളതെല്ലാം ൻറെ മാത്രം ഫംഗ്ഷനും ആണ് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ വേരിയബിളുകളെ സെപ്പറേറ്റ് ചെയ്തുകഴിഞ്ഞാൽ അത്തരം ഡിഫറൻഷ്യൽ സമവാക്യത്തിനുള്ള സൊലൂഷൻ നമുക്ക് ഇവിടെ ഇൻറെഗ്രേറ്റ് ചെയ്തു കൊണ്ട് വളരെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും ആദ്യം നമുക്ക് ഈ സമവാക്യത്തെ എന്ന രൂപത്തിൽ എഴുതാം തുടർന്ന് ഈ സമവാക്യത്തെ കോൺസ്റ്റൻസ് ഓഫ് ഇൻറെഗ്രേഷൻ കൊടുത്തുകൊണ്ട് ലളിതമായി ഇൻറെഗ്രേറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ളതിൻറെ ഒരു ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നത് കാണുക ഇതിൽ വലതുവശത്തുള്ള ഫംഗ്ഷനെ സൂക്ഷ്മമായി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആദ്യമായി എന്നതിന് എന്ന്ആയി എഴുതാം ഈ എന്ന രണ്ടാം പദം ആദ്യമേ സെപ്പറബിൾ ഫോമിലാണ് ഇനി നമ്മൾ ചെയ്യുന്നത് പൊതുവായതായി എടുത്തു കൊണ്ട് അത് സമവാക്യത്തിന്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നു ഈ വശം ആയിരിക്കും അതിനാൽ ഈ സമവാക്യം വേരിയബിൾ സെപറബിൾ ഫോമിലാണ് അത് നമുക്ക് എളുപ്പത്തിൽ ഇൻറെഗ്രേറ്റ് ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് ഇത് മാറ്റിയെഴുതാം നമ്മൾ ഈ സമവാക്യത്തെ കൊണ്ട് ഗുണിക്കുന്നു ഒപ്പം വലതുവശത്ത് ഇപ്പോൾ ആയി മാറുന്നു അത് ൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ ഇവിടെ നമുക്ക് യുടെ മാത്രം ഫങ്ക്ഷനും വലതുവശത്ത് ന്റെ മാത്രം ഫങ്ക്ഷനും ആവുന്നു ഇപ്പോൾ നമുക്ക് ഈ സമവാക്യത്തെ എളുപ്പത്തിൽ ഇൻറെഗ്രേറ്റ് ചെയ്തു അതായത് എന്ന് ലഭിക്കുന്നു അതിനാൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ലഭിച്ചിരിക്കുന്ന ഇംപ്ലീസിറ്റ് സൊലൂഷൻ ആണ് ഇത് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിനെ ഇൻറെഗ്രേറ്റ് ചെയ്തു സൊലൂഷൻ കണ്ടെത്തുന്നത് എളുപ്പമായിരുന്നു അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സൊലൂഷൻ കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാന മാർഗങ്ങളിൽ ഒന്നാണിത് മറ്റൊന്നുള്ളത് വേരിയബിൾ സെപറബിൾ ഫോമിലേക്ക് മാറ്റാവുന്ന സമവാക്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് തന്നിരിക്കുന്ന അതേ അവസ്ഥയിൽ സമവാക്യത്തിൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷേ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ട് ഇതിനെ വേരിയബിൾ സെപറബിൾ ഹോമിലേക്ക് മാറ്റിയെടുക്കാം തുടർന്ന് വേരിയബിൾ സെപറബിൾ സമവാക്യങ്ങൾക്കായി നമ്മൾ ചെയ്ത പ്രക്രിയ വീണ്ടും ആവർത്തിക്കാം ഉദാഹരണത്തിന് എന്ന സമവാക്യം അല്ലെങ്കിൽ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഫോം അല്ലെങ്കിൽ വെറും ഫോം എന്നിവയിൽ അല്ലെങ്കിൽ എന്നീ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ച് കൊണ്ട് ഇവയെ മാറ്റി എഴുതാം ഈ പദപ്രയോഗങ്ങൾൽ നമ്മൾ എന്ന ഒരു പുതിയ വേരിയബിൾ നൽകും ഇതിൽ നിന്നും നമുക്ക് എന്നു ലഭിക്കുന്നു യുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സൊലൂഷൻ ലഭിച്ചതിന് ശേഷം എന്ന് തിരിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഫൈനൽ സൊല്യൂഷൻ യുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും എഴുതാം ഇത്തരത്തിലുള്ളതിൻറെ ഒരു ഉദാഹരണം എന്ന് എടുക്കുന്നു ഈ രൂപത്തിൽ നൽകിയിരിക്കുന്ന ഈ സമവാക്യം സെപറബിൾ ഫോമിൽ അല്ല കാരണം നമുക്ക് ഈ നെ ഒരു വശത്തേക്കും യെ മറ്റൊരു വശത്തേക്കും കൊണ്ടുവരാൻ കഴിയില്ല അതിനാൽ മുമ്പ് വിവരിച്ച ആശയം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇതിനർത്ഥം ഈ എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് എന്നും അതായത് 1 എന്നും ലഭിക്കും ഇവ തന്നിരിക്കുന്ന സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിനാൽ നൽകിയ സമവാക്യം ഇപ്പോൾ എന്നായി പരിഗണിക്കും ഇപ്പോൾ ഈ സമവാക്യം സെപറബിൾ ഫോമിൽ ആണ് നമുക്ക് ഇത് എളുപ്പത്തിൽ ഇൻറെഗ്രേറ്റ് ചെയ്യാൻ കഴിയും ഇൻറെഗ്രേറ്റ് ചെയ്യുന്നതിനുമുമ്പ് നമുക്ക് ഈ പദം ഒന്നുകൂടി ലളിതമാക്കാം ഇതിന് എന്ന് എഴുതാം ഇപ്പോൾ ഇൻറെഗ്രേഷൻ എളുപ്പമാകും അതിനായി യിൽ ഉള്ള ഈ പദങ്ങൾ എല്ലാം ഇടത് വശത്തേക്കും എന്ന് ഈ ഡിഫറൻഷ്യൽ വലതുവശത്തേക്കും എടുക്കും തുടർന്ന് നമ്മൾ ഇത് ഇൻറെഗ്രേറ്റ് ചെയ്യും നമുക്ക് ഇടത് വശത്ത് എന്താണ് ലഭിക്കുന്നത് ഇത് ഓർഡർ റിവേഴ്സ് ചെയ്യും അപ്പോൾ നമുക്ക് എന്നു കിട്ടും ശേഷം ഇൻറെഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്നും കിട്ടുന്നു തിരിച്ച് എന്ന് തന്നെ റീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ന സൊലൂഷൻ ലഭിക്കുന്നു അതിനാൽ ഇവിടെ നൽകിയിട്ടുണ്ടായിരുന്ന സമവാക്യം വേരിയബിൾ സെപറബിൾ ഫോമിൽ ആയിരുന്നില്ല എന്നാൽ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിലൂടെ അതിവിടെ എന്ന സെപറബിൾ ഫോമിൽ ആവുകയും എളുപ്പത്തിൽ ഇൻറെഗ്രേറ്റ് ചെയ്യാൻ കഴിയുകയും ഒടുവിൽ നമുക്ക് എന്ന ഇംപ്ലിസിറ്റ് സൊലൂഷൻ ലഭിക്കുകയും ചെയ്തു ഇനി നമ്മൾ പരിഗണിക്കുന്നത് ഏകതാന സമവാക്യങ്ങൾ അതായത് ഹോമോജീനിയസ് എന്ന് വിളിക്കുന്ന മറ്റൊരു തരം സമവാക്യങ്ങളെ ആണ് ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ സമവാക്യത്തെ എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ അതിനെ ഹോമോജീനിയസ് എന്നു വിളിക്കുന്നു അത്തരമൊരു സമവാക്യം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന സൊല്യൂഷൻ ടെക്നിക് നമുക്കുണ്ട് ഇവിടെ നമ്മൾ ഒരു പുതിയ വേരിയബിളായി എന്ന് എടുക്കുന്നു തുടർന്ന് നമുക്ക് ഇതിൽനിന്ന് നേടാം ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് അടിസ്ഥാനപരമായി എന്നുണ്ട് അതിൽനിന്ന് അതായത് എന്ന് എഴുതാം ഇവിടെ നമ്മൾ നെ എന്നായി അനുമാനിച്ചത് കാരണം നമുക്ക് ലഭിക്കുന്ന പുതിയ സമവാക്യം സെപ്പറബിൾഫോമിലാണ് ഈ യെ നമുക്ക് വലതുവശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിനാൽ നമുക്ക് എന്നുണ്ട് നമ്മൾ ഈ എന്ന ഉദാഹരണത്തിലൂടെ കടന്നുപോകുന്നു ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം ആണ് ഇതിനെ മാറ്റിയെഴുതുകയാണെങ്കിൽ എന്നാവുന്നു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നു വരികയും തന്നിരിക്കുന്ന സമവാക്യം എന്നാവുകയും ചെയ്യുന്നു യെ വലതുവശത്തേക്ക് കൊണ്ടുപോയി അത് കുറക്കുമ്പോൾ നമുക്ക് എന്നായി ലഭിക്കുന്നു ഇപ്പോൾ ഇത് വേരിയബിൾ സെപറബിൾ ഫോമിലാണ് നമുക്ക് വലതുവശത്തെ പദം ഇടത് വശത്തേക്കും നെ വലതുവശത്തേക്കും കൊണ്ടുപോകാം തുടർന്ന് നമുക്ക് എളുപ്പത്തിൽ ഇൻറെഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമ്മൾ ചെയ്തത് അതിനാൽ എന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ ആയി എന്നിവയുടെ ഇംപ്ലിസിറ്റ് രൂപത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു ഈ ലക്ച്ചറിന്റെ അവസാനമായി നമുക്കുള്ളത് ഹോമോജീനിയസ് രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന സമവാക്യങ്ങൾ ആണ് നമുക്ക് നൽകിയിരിക്കുന്ന സമവാക്യം നേരിട്ട് ഹോമോജീനിയസ് രൂപത്തിൽ ആയിരിക്കില്ല പക്ഷേ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനെ ഹോമോജീനിയസ് രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും നമ്മൾ സംസാരിക്കുന്നത് എന്ന ഈ രൂപത്തിലുള്ള സമവാക്യത്തെ കുറിച്ചാണ് ഇതിൽ എന്നിവയെല്ലാം കോൺസ്റ്റന്റ്കളും ഉം ആണ് അല്ലാത്തപക്ഷം ഇതിനെ വേരിയബിൾ സെപറബിൾ ഫോമിലേക്ക് മാറ്റി നമ്മൾ മുമ്പ് ചെയ്ത വിധത്തിൽ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അതിനർത്ഥം നമ്മൾ ഇവിടെ കുറച്ചുകാര്യങ്ങൾ അധികമായി ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളിവിടെ ബിഗ് എക്സ് ബിഗ് വൈ എന്നീ പുതിയ വേരിയബിൾകളിലുള്ള എന്നീ സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾനെ ഇവിടെ എന്നായും ഡിപെൻഡന്റ് വേരിയബിൾനെ എന്നായും മാറ്റുന്നു ഈ സമവാക്യത്തിൽ എന്ന കോൺസ്റ്റന്റ് ഉള്ളതിനാൽ നിലവിൽ ഇത് ഹോമോജീനിയസ് അല്ല അതിനാൽ ഈ സമവാക്യം ഹോമോജീനിയസ് ആകത്തക്ക വിധത്തിലുള്ള കോൺസ്റ്റന്റ്കൾ ആയാകണംഎന്നിവ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം നമുക്കുള്ളത് ഇവിടെ പുതിയ പദപ്രയോഗം എന്നിവയിലായിരിക്കും പക്ഷേ നമുക്ക് ഇവിടെ എന്നീ കോൺസ്റ്റന്റ്കളും ഉണ്ട് എന്നിവ നമ്മൾ തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഈ രണ്ട് പദപ്രയോഗങ്ങളും ഇവിടെ അപ്രത്യക്ഷമാവുകയും നമ്മുടെ സമവാക്യം ഹോമോജീനിയസ് സമവാക്യമായി മാറുകയും ചെയ്യുന്നു അതാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിനാൽ ഈ രണ്ട് പദങ്ങളും 0 ന് തുല്യമായി ക്രമീകരിക്കുന്നതിലൂടെ ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നീ സമവാക്യങ്ങൾ എപ്പോഴും പരിഹരിക്കാൻ കഴിയുന്നവയാണ് അതു കാരണം അത്തരം എന്നിവ കണ്ടെത്താൻ എല്ലായ്പ്പോഴും സാധ്യമാണ് ഇവയിൽ എന്നിവ ഗുണകങ്ങളും എന്നിവ വേരിയബിൾകളും ആണ് ഇവിടെയുള്ള കോയിഫിഷ്യന്റ്മാട്രിക്സ് നോക്കിയാൽ അതിന് പൂജ്യമല്ലാത്ത ഡിറ്റർമിനന്റാണ് ഉള്ളത് അതിനർത്ഥം നമുക്ക് എല്ലായ്പ്പോഴും ഈ സമവാക്യങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് മാത്രമല്ല ഒരേയൊരു സൊല്യൂഷൻ മാത്രമേ ലഭിക്കുകയുമുള്ളൂ അതിനാൽ ഇവിടെ നമുക്ക് എന്നിവയുടെ മൂല്യങ്ങൾ ലഭിക്കും അതായത് എന്നിവ അപ്രത്യക്ഷമാവുകയും ഇതിനകം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എന്നിവ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ നമ്മുടെ സമവാക്യം ഇപ്പോൾ എന്ന ഹോമോജീനിയസ് സമവാക്യം ആയി പരിവർത്തനം ചെയ്യുന്നു ഈ സമവാക്യത്തെ നമുക്ക് രൂപത്തിൽ എഴുതാൻ കഴിയും അതിനെ നമുക്ക് നേരത്തെ ചർച്ച ചെയ്ത രീതി ഉപയോഗിച്ച് പരിഹരിക്കാനാകും ഇന്നത്തെ ലക്ച്ചറിൽ അവസാനമായി നമുക്ക് ഇതിനുള്ള ഒരു ഉദാഹരണം ചെയ്യാം ഇവിടെ നമ്മൾ എന്ന് അനുമാനിക്കുകയും മുമ്പ് ചർച്ച ചെയ്തതുപോലെ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ അതായത് ആകുന്ന വിധം എന്നിവ തെരഞ്ഞെടുക്കുന്നു രണ്ടു സമവാക്യങ്ങളും പരിഹരിക്കുന്നതിലൂടെ ഇങ്ങനെ ലഭിക്കുന്നു അതുകൊണ്ട് എന്നും എന്നും ലഭിക്കുന്നു ഇതിൽ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എന്ന് എഴുതാം അതുകൊണ്ട് സമവാക്യത്തെ എന്നെഴുതുന്നു ഇതിനെ ഇൻറെഗ്രേറ്റ് ചെയ്യുന്നു അതായത് അതായത് ഇതിൽ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചാൽ എന്ന സൊലൂഷൻ കിട്ടുന്നു നമ്മൾ ഇപ്പോൾ ഇന്നു പഠിച്ചവ ഉപസംഹരിക്കുകയാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അത് ഒരുതരം അവലോകനമായിരുന്നു കാരണം നിങ്ങളിൽ പലരും ഇതിനകം തന്നെ ഈ രീതിയെക്കുറിച്ച് ബോധവാന്മാരാണ് വേരിയബിൾ സെപറബിൾ ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന മറ്റു സമവാക്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ചചെയ്തു ഹോമോജീനിയസ് സമവാക്യത്തെക്കുറിച്ചും ഹോമോജീനിയസ് രൂപത്തിലേക്ക് മാറ്റാവുന്ന സമവാക്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ചചെയ്തു നമ്മളിവിടെ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി